ആദ്യ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം മൈക്രോവേവ് ഡിസൈനിലെ വെല്ലുവിളികൾ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ധാരാളം നക്ഷത്രങ്ങളുണ്ട് അവയിൽ ചിലത് റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്ന നക്ഷത്രങ്ങളാണ് അവ ധാരാളം മൈക്രോവേവ് റേഡിയേഷൻ പുറപ്പെടുവിക്കുന്നു അവ ശരിയായി കേൾക്കുന്നതിലൂടെ ഈ റേഡിയോ സോഴ്സുകളിൽ നിന്ന് നമുക്ക് നിരവധി വിവരങ്ങൾ ലഭിക്കും ഇത്തരത്തിലുള്ള അധിക ടെറസ്ട്രിയൽ സോഴ്സ്സ് കേൾക്കാൻ മൈക്രോവേവ് സാങ്കേതികവിദ്യ നമുക്ക് ആവശ്യമാണ് സൂര്യൻ സൌരജ്വാല പുറപ്പെടുവിക്കുന്നു അത് നമ്മുടെ അന്തരീക്ഷത്തിൽ പതിക്കുന്നു കൂടാതെ അത് നമ്മുടെ അന്തരീക്ഷത്തെ ബാധിക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തും അതിനാൽ മൈക്രോവേവ് സാങ്കേതികവിദ്യയും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ എന്തുചെയ്യണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എങ്ങനെ സംരക്ഷിക്കാം ആ സൌരജ്വാലകളിൽ നിന്ന് നമ്മളുടെ വിവിധ ആപ്ലിക്കേഷൻ സിസ്റ്റങ്ങൾ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വളരെ സാധാരണമായ ഒരു കാര്യം മാത്രമാണ് നമ്മൾക്ക് മിന്നൽ കാണുന്നത് ഉദാഹരണം ഇപ്പോൾ ഈ മിന്നലിൽ നിന്ന് സംരക്ഷണം ആവശ്യമായ മനുഷ്യൻ ഉണ്ടാക്കിയ വിവിധ സംവിധാനങ്ങൾ നമുക്കുണ്ട് അതിനാൽ അത് മനസ്സിലാക്കാൻ നിങ്ങൾ മൈക്രോവേവ് സാങ്കേതികവിദ്യ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ മാതൃഭൂമി നിരവധി സാറ്റലൈറ്റ്സ് കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ അവയിൽ ഭൂരിഭാഗവും മനുഷ്യൻ വിക്ഷേപിച്ച ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണ് അതിനാൽ നമ്മുടെ കാഴ്ചപ്പാട് ബഹിരാകാശത്തേക്ക് വ്യാപിപ്പിക്കാനും അവയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവയിൽ നിന്ന് ഡാറ്റ ശേഖരിക്കാനും മൈക്രോവേവ് സാങ്കേതികവിദ്യ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങക്ക് അറിയാമല്ലോ ഇന്നത്തെ ലോകത്ത് നമ്മളെല്ലാവരും വൈ ഫൈ ഉപഗ്രഹങ്ങൾ മൊബൈൽ ടവറുകൾ ഇവയെല്ലാം കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് ടിവി പേജറുകൾ സെൽ ഫോണുകൾ തുടങ്ങിയവയുണ്ട് ഇവയുടെയെല്ലാം വിവിധ കമ്മ്യൂണിക്കേഷൻ ആന്റിനകൾ ഗ്രൌണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടറുണ്ട് ഇവയെല്ലാം റേഡിയേറ്റ് ചെയുന്നു ഇത് ഇലക്ട്രോമാഗ്നെറ്റിക് സിഗ്നൽ ആയി കാണപ്പെടുന്നു ഇത് മനസിലാക്കാൻ അവയുടെ പിന്നിലെ സാങ്കേതികവിദ്യ നിങ്ങൾ അറിയേണ്ടതുണ്ട് അത് മൈക്രോവേവ് സാങ്കേതികവിദ്യയാണ് നിങ്ങൾ ഇലക്ട്രോമാഗ്നെറ്റിക് സ്പെക്ട്രം കാണുന്നു വളരെ വലിയ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഒരു വലിയ ഫുട്ബോൾ മൈതാനത്തിന്റെ ഓർഡറിൽ നോക്കുമ്പോൾ ഒരു വലിയ സ്റ്റേഡിയം മുതൽ വളരെ ചെറിയ വേവ് ലെങ്ത്തുള്ള വാട്ടർ മോളിക്യൂൽഒരു ഇലക്ട്രോൺ ഒരു സബ് ആറ്റോമിക് പാർട്ടിക്കിൾ എന്നിവയെല്ലാം തന്നെ ഇലക്ട്രോമാഗ്നെറ്റിക് വേവ്സ് ചേർന്നതാണ് അതിനാൽ ഇലക്ട്രോമാഗ്നെറ്റിക് സ്പെക്ട്രം വളരെ ചെറിയ ഫ്രീക്വൻസി മുതൽ വളരെ ഉയർന്ന ഫ്രീക്വൻസി വരെ ഉൾക്കൊള്ളുന്നു സാധാരണയായി നിങ്ങൾക്ക് 100ഹെർട്സ് 10 മുതൽ 20ഹെർട്സ് വരെ പോകാം അതിനാൽ ഇവയെല്ലാം ഇലക്ട്രോമാഗ്നെറ്റിക് സ്പെക്ട്രത്തിന്റെ ഭാഗമാണ് എന്നാൽ മൈക്രോ വേവ്സിന്റെയും വിശാലമായ വിഭജനം ഉണ്ടെന്ന് നിങ്ങൾക്ക് സ്ലൈഡിൽ നിന്ന് കാണാൻ കഴിയും അത് കിലോഹെർട്സ് ഫ്രീക്വൻസികളിൽ നിന്ന് ജിഗാഹെർട്സ് ഫ്രീക്വൻസികൾ വരെ നമുക്ക് പറയാൻ കഴിയും നമ്മൾ അവയെ റേഡിയോ വേവ്സ് എന്ന് വിളിക്കുന്നു പ്രത്യേകിച്ച് 100ഹെർട്സ് 100 ഗിഗാഹെർട്സ് മുതൽ ഏകദേശം 100 മെഗാഹെർട്സ് വരെ നിങ്ങൾക്ക് പറയാം അതിനെ മൈക്രോവേവ് എന്ന് വിളിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഈ ഫ്രീക്വൻസി ശ്രേണിയിൽ ഈ ആപ്ലിക്കേഷനുകൾ മുതലായവ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചില സാങ്കേതിക വിദ്യകൾ ഉണ്ട് ഇപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിൽ നടന്ന ചില കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾ കാണുന്നു റേഡിയോകൾ ഉണ്ടായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ട്രാൻസാക്ഷണൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കണ്ടുപിടിച്ചത് പിന്നീട് നമ്മൾ ടിവി കമ്മ്യൂണിക്കേഷനും മറ്റും കണ്ടു റേഡിയോ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ടിവി കമ്മ്യൂണിക്കേഷൻ എന്നിവയുടെ കണ്ടുപിടുത്തം കാരണം ഇവ സാധ്യമായി കൂടാതെ ഇരുപതാം നൂറ്റാണ്ടിന്റെ പിറവിയോടെ ഏവിയോണിക്സ് മേഖലയ്ക്ക് കാരണമായ വിമാനം കണ്ടുപിടിച്ചു എയർക്രാഫ്റ്റ് ഇലക്ട്രോണിക്സ് മൈക്രോവേവ് സൃഷ്ടിച്ചു അത് മനുഷ്യരാശിക്ക് കണ്ടെത്താവുന്നതിലും ഉയർന്നത് ആയതിനാൽ വിമാനം അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കൽ വരുന്ന മറ്റേതെങ്കിലും കാര്യം കണ്ടെതുന്നതിന് റഡാർ ഉപയോഗിച്ചു കൂടാതെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടിത്തം ഉണ്ടായി അത് ഐസിക്ക് കാരണമായി ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ വളരെ ചെറിയ അളവിലോ വിസ്തൃതിയിലോ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ആ ട്രാൻസിസ്റ്ററുകളുടെയും മറ്റ് സർക്യൂട്ടുകളുടെയും വലിയ സംഖ്യ ഇലക്ട്രോണിക് സർക്യൂട്ടറികൾ നിറഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മൾ വളരെ വലിയ തോതിലുള്ള ഏകീകരണം കാണുന്നു അതിനാൽ അവിടെയും ഈ മൈക്രോവേവ് സാങ്കേതികവിദ്യ ഉപയോഗപ്രദമാണ് കാരണം രണ്ട് ട്രാൻസ്മിഷൻ ലൈനുകൾ സമീപത്തായിരിക്കുമ്പോൾ ധാരാളം കപ്ലിംഗ് മുതലായ പ്രശ്നങ്ങളുണ്ട് അവ നിർത്തുകയും അവയെല്ലാം മൈക്രോവേവ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിശകലനം ചെയുകയും ചെയ്യുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ എഴുപതുകളിലോ എൺപതുകളിലോ മൈക്രോ പ്രോസസർ കണ്ടുപിടിച്ചുവെന്നും അത് എല്ലാറ്റിന്റെയും ഡിജിറ്റൽ നിയന്ത്രണത്തിന് കാരണമായെന്നും ഒടുവിൽ മൈക്രോപ്രൊസസർ കമ്പ്യൂട്ടറുകളായി പരിണമിച്ചുവെന്നും അത് ഇന്നത്തെ നമ്മുടെ വീടുകളിലും അവയിലെല്ലാം പരിണമിച്ചുവെന്നും നിങ്ങൾക്കറിയാം ക്ലോക്ക് സ്പീഡ് ഏതാണ്ട് ജിഗാഹെർട്സിലേക്ക് പോകുന്നു അതിനാൽ അവയിൽ നിന്ന് ധാരാളം ഇലക്ട്രോമാഗ്നെറ്റിക് വേവ്സ് പുറപ്പെടുന്നു അവ മനസിലാക്കാൻ നിങ്ങൾക്ക് മൈക്രോവേവ് സാങ്കേതികവിദ്യ ആവശ്യമാണ് ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ കാണൻ പോകുന്നു ഇക്കാലത്ത് എല്ലാ രാജ്യങ്ങളും വിവിധ ഉപഗ്രഹങ്ങൾ വിവിധ റോബോട്ടുകൾ വിവിധ ഉപദേഷ്ടാക്കൾ എന്നിവ ഗ്രഹങ്ങളെ പര്യവേക്ഷണം ചെയ്യുന്നതിനായി അയക്കുന്നു എന്ന് കരുതുക ഇപ്പോൾ ഒരു പുതിയ ഗ്രഹത്തിൽ എന്താണ് ഉള്ളതെന്ന് കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ലൈഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾ ഉപഗ്രഹത്തെ പിന്തുടരുന്നു അത് ഗ്രഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പിന്നീട് അത് പ്രതിഫലിക്കുന്ന ഡാറ്റ ശേഖരിക്കുകയും ചെയ്യുന്നു അവിടെ വൺ ലേയർ ഇൻഫർമേഷന്റെ ഒരു സ്ലൈസ് അതിൽ ഉണ്ടെന്ന് നമ്മൾ കാണുന്നു നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഗ്രഹത്തിന്റെ മണ്ണിനടിയിലെ ഓരോ ലേയറുകൾക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും അതുവഴി ശാസ്ത്രജ്ഞർക്ക് പ്രവചിക്കാൻ കഴിയുന്ന വിവരങ്ങളുടെ വിവിധ തലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു ബഹിരാകാശ ശാസ്ത്രജ്ഞർ വിവിധ ലേയറിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് പ്രവചിക്കുന്നു അതോടൊപ്പം വിവിധ മിനറൽസ് ഉണ്ടോ ഭൂമിയിൽ ലഭ്യമല്ലാത്തതോ ഭൂമിയിൽ കുറവുള്ളതോ ആയ വിലപിടിപ്പുള്ള വിവിധ മിനറൽസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അവയും വേർതിരിച്ച് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഒരു പുതിയ ഏരിയ ഉണ്ടെന്ന് കരുതുക അവിടെ നിങ്ങളുടെ വിവിധ കമ്മ്യൂണിക്കേഷൻ റഡാറുകൾ മുതലായവ നിങ്ങൾ വിന്യസിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അതിനായി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് അവിടെയുള്ള അന്തരീക്ഷം എന്നതാണ് ഈ സ്ലൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയുണ്ടെന്ന് കണ്ടെത്തുന്നതിന് എന്താണ് വേണ്ടത് ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് മൈക്രോവേവ് ഉപകരണങ്ങൾ ആവശ്യമാണ് അത് നമ്മൾ ഈ പ്രഭാഷണത്തിൽ ചർച്ച ചെയ്യും അപ്പോൾ ഇതൊരു സമീപകാല സംഭവവികാസമായിരുന്നു ഇക്കാലത്ത് നമ്മൾ വളരെ ചെറിയ ദൈർഘ്യമുള്ള പൾസ് അയയ്ക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് 50 പൈക്കോസെക്കൻഡ് എന്ന് പറയാം ഇപ്പോൾ ഒരു ന്യൂക്ലിയർ സ്ഫോടനം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പൾസ് ഭൂമിയിലേക്ക് വരുന്നു അതിനാൽ നമ്മുടെ സിസ്റ്റങ്ങൾ അതിന് എക്സ്പോസ് ആയാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് എന്നാൽ പൊതുവെ മനുഷ്യരാശിക്ക് ഇത്തരത്തിലുള്ള സിഗ്നലുകൾ കണ്ടെത്താനോ റേഡിയേഷൻ ചെയ്യാനോ കഴിയുന്ന ഒരു മാർഗവും ഇല്ലായിരുന്നു എന്നാൽ 1995 ൽ ഈ ആന്റിനയെ ഇംപൾസ് റേഡിയേറ്റിംഗ് ആന്റിനയെ ഈ മൈക്രോവേവ് ടെക്നോളജിയുടെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് 300 മീറ്ററിൽ ഒരു മീറ്ററിന് 5 കിലോ വോൾട്ട് എന്ന തോന്നൽ സൃഷ്ടിക്കാൻ കഴിയും അതായത് 300 മീറ്റർ അകലെ നിങ്ങൾക്ക് 150 പൈക്കോസെക്കൻഡ് പൾസ് ദൈർഘ്യമുള്ള ഒരു മീറ്ററിന് ഒരു കിലോ വോൾട്ട് ഫീൽ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ ഒരുപൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 40 മെഗാഹെർട്സ് മുതൽ 4 ജിഗാഹെർട്സ് വരെ ഫ്രീക്വൻസികളുടെ ഒരു വലിയ ബാൻഡ് നിർമ്മിക്കാൻ കഴിയും പൂർണ്ണമായും മൈക്രോവേവ് സാങ്കേതികവിദ്യ പ്രയോഗിച്ചപ്പോഴാണ് ഈ ആന്റിന പുറത്തുവന്നത് ഏകദേശം കഴിഞ്ഞ നൂറ്റാണ്ടിലുടനീളം ഇത് അറിയപ്പെട്ടിരുന്നില്ല പക്ഷേ ഭാഗ്യവശാൽ 1995 നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നമ്മൾക്ക് ഈ ആന്റിന ലഭിച്ചു അത് ഇന്ന് വളരെയധികം പ്രയോഗം നേടുകയും അത് മൈക്രോവേവ് സാങ്കേതികവിദ്യയുടെ വഴിതിരിവാക്കുകയും ചെയ്തു ഇത് ആ ആന്റിനയുടെ മികച്ച കാഴ്ചയാണ് ഇത് ഒരു ഡിഷ് ആന്റിനയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ അതിന്റെ പുറകിൽ സെർവുണ്ട് ശരിയായി രൂപകൽപ്പന ചെയ്ത ട്രാൻസ്മിഷൻ ലൈനുകൾ ഉണ്ട് അതിനാൽ ശുദ്ധമായ ഒരു പൾസ് നിങ്ങൾക്ക് അവയിലേക്ക് റേഡിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരുതരം ഇമ്പൾസ് പോലുള്ള ഒന്നാണ് ഇപ്പോൾനിങ്ങൾ കാണുന്ന ഒരു ആപ്ലിക്കേഷൻ ഒരു വ്യക്തി ഒരു ഭൂകമ്പമോ ഹിമപാതമോ ഉണ്ടാകുമ്പോൾ ആ ഭൂകമ്പത്തിന്റെ അവശിഷ്ടങ്ങൾക്കടിയിലോ ഹിമപാതത്തിന്റെ മഞ്ഞിനടിയിലോ അകപ്പെട്ട് പോകുന്നു അപ്പോൾ ആദ്യം തന്നെ ആരെങ്കിലും അടിയിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെതേണ്ടതുണ്ട് ഇപ്പോൾ ട്രാക്കർ ഡോഗ് മുതലായവയ്ക്ക് മുമ്പ് പ്രോബ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഹെലികോപ്റ്ററിനോ ഉപ ഉപരിതലത്തിൽ എന്താണ് ഉള്ളതെന്ന് കാണാൻ കഴിയില്ല പക്ഷേ ഇമ്പൾസ് റേഡിയേഷൻ ആന്റിന സാങ്കേതികവിദ്യക്കോ 1 മുതൽ 2 മീറ്റർ വരെ മഞ്ഞ് അല്ലെങ്കിൽ 1 മുതൽ 2 മീറ്റർ വരെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയോ വസ്തുക്കളോ ഉണ്ടോ എന്ന് ഇപ്പോൾ ആളുകൾക്ക് കണ്ടെത്താനാകും തുടർന്ന് അവൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന സാങ്കേതികവിദ്യ വരുന്നു അതിനാൽ കുറഞ്ഞ സഹകരണ പ്രവർത്തനങ്ങൾ മതിയോ ഇപ്പോൾ ഈ ആർഎഫ് ഡിസൈൻ അല്ലെങ്കിൽ മൈക്രോവേവ് ഡിസൈൻ ആവശ്യമാണെന്ന് നമ്മൾ പറയുന്ന ധാരാളം ആപ്ലിക്കേഷനുകൾ ഉണ്ടെന്ന് നമ്മൾ കാണുന്നു ഇപ്പോൾ സാധാരണയായി നമ്മളുടെ പ്രീഡിഗ്രി ക്ലാസുകളിൽ പ്രാരംഭ ഘട്ടത്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതുപോലെയുള്ള വിവിധ അനലോഗ് ഡിസൈൻ നടപടിക്രമങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു ഒരു സി ആംപ്ലിഫയർ എങ്ങനെ രൂപകൽപ്പന ചെയ്യാം ഒരു ഫേറ്റ് ആംപ്ലിഫയർ എങ്ങനെ രൂപകൽപ്പന ചെയ്യാം ഒരു ഫിൽട്ടർ എങ്ങനെ രൂപകൽപ്പന ചെയ്യാം എന്നാൽ RF ഡിസൈൻ അതിൽ നിന്ന് അൽപ്പം വ്യത്യസ്തമാണ് കാരണം അത് പ്രാഥമികമായി ഇലക്ട്രോമാഗ്നെറ്റിക് ഫീൽഡ് സിദ്ധാന്തത്തിൽ നിന്ന് പരിണമിച്ചു പിന്നീട് ഒരു സാങ്കേതികവിദ്യയായി ഇത് മൈക്രോവേവ് സാങ്കേതികവിദ്യയിൽ നിന്ന് വികസിച്ചു ഇപ്പോൾ ഈ RF ഡിസൈനും മൈക്രോവേവ് ഡിസൈനും ഏതൊക്കെ പോയിന്റുകളിലാണ് പ്രധാനമായും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അവ എന്തൊക്കെയാണ് RF ഡിസൈൻ ബേസ് ബാൻഡ് അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമാണ് അതിനാൽ ഒന്നാമതായി നിങ്ങൾ ഇംപിഡൻസ് മാച്ചിങ് കാണുന്നു യഥാർത്ഥത്തിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ സിദ്ധാന്തത്തിൽ നിന്ന് ഊർജ്ജത്തിന്റെ ഉറവിടം പവർ ഇലക്ട്രോണിക് പവർ എസി പവർ എന്നിവ നിങ്ങൾ ഒരു ലോഡിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോഡും ഉറവിടവും അവിടെ പൊരുത്തപ്പെടുത്തണം അവർ തമ്മിലുള്ളത് ഒരു സംയോജിത ബന്ധം ആയിരിക്കണം അതിനാൽ ആ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും പക്ഷേ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ബേസ് ബാൻഡ് ഡിസൈനിൽ ഇത് എല്ലായ്പ്പോഴും പ്രയോഗിക്കില്ല കാരണം ബേസ് ബാൻഡിൽ അതായത് നിങ്ങളുടെ ബേസിക് സോഴ്സ് എവിടെയാണ് അത് ഓഡിയോ സോഴ്സ് അല്ലെങ്കിൽ വീഡിയോ സോഴ്സ് ആണ് കുറഞ്ഞ ഫ്രീക്വൻസി യിലുള്ള കാര്യങ്ങൾ സാധാരണയായി അവിടെ ചില കിലോഹെർട്സ് അല്ലെങ്കിൽ മെഗാഹെർട്സ് ഫ്രീക്വൻസികൾ അതും അല്ലെങ്കിൽ ചെറിയ അളവിലുള്ള മെഗാഹെർട്സ് ഫ്രീക്വൻസികൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഉറവിടങ്ങളും അവയുടെ ഊർജ്ജവും ധാരാളം ഉണ്ട് അതിനാൽ പവർ ഒരു പ്രശ്നമല്ല അതുകൊണ്ടാണ് ആ ഡിസൈനുകളിൽ നിന്ന് ആ വോൾട്ടേജ് മുതലായവ മാക്സിമം വർദ്ധിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത് എന്നാൽ നമ്മൾ ഫ്രീക്വൻസി യിൽ ഉയർന്ന് പോകുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ ചെലവേറിയതായിരിക്കും അത് വിലയേറിയ ഒരു വിഭവമാണ് അതിനാലാണ് RF ഡിസൈൻ ചെയുന്ന ആളുകൾ ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് പവർ ട്രാൻസ്ഫർ എങ്ങനെ മാക്സിമം ആക്കാമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് അവ വളരെ വിരളമാണ് ഈ ഇംപിഡൻസ് മാച്ചിങ്ങിനായി അവർ വളരെയധികം ശ്രദ്ധിക്കുന്നു അതേസമയം അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിസൈനുകൾ അതിൽ നിസ്സംഗത പുലർത്തുന്നുവെന്ന് നമുക്ക് പറയാം ഒരു ഉദാഹരണം നമ്മൾ എസി ആംപ്ലിഫയർ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇൻപുട്ട് ഇംപിഡൻസ് മാക്സിമം വർദ്ധിപ്പിക്കുകയും ഔട്ട്പുട്ട് ഇംപിഡൻസ് കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് നമ്മളുടെ ഡിസൈൻ ലക്ഷ്യം പക്ഷേ മാക്സിമം പവർ ട്രാൻസ്ഫർ സിദ്ധാന്തത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യമില്ല കാരണം ഇൻപുട്ട് സൈഡിലും ഔട്ട്പുട്ട് വശത്തും നമ്മൾ സോഴ്സ് മാച്ച് ചെയേണ്ടതുണ്ട് എന്നാൽ കുറഞ്ഞ ഫ്രീക്വൻസി ഡിസൈനിന്റെയോ ബേസ് ബാൻഡ് ഡിസൈനിന്റെയോ കാര്യത്തിൽ നമുക്ക് ആ സ്വാതന്ത്ര്യം എടുക്കാം അവിടെ കാണുന്ന ഒരു സാധാരണ അനലോഗ് ഡിജിറ്റൽ ഡിസൈനിനെ നമ്മൾ ഉപയോഗിക്കുന്നു കാരണം അവയ്ക്ക് ധാരാളം പവർ ഉണ്ട് അതിനാൽ പവർ സെൻസിൽ ഇത് ഒപ്റ്റിമൽ അല്ലെങ്കിലും ഒരു ക്ലാസിക് ആയ വളരെ നല്ല ആംപ്ലിഫയർ അതായത് ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ പോലുള്ള എസി ആംപ്ലിഫയറിന്റെ രൂപകൽപ്പനയിൽ നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ സിദ്ധാന്തത്തിലേക്ക് കൂടുതൽ പ്രാധാന്യം നൽകില്ല അതേസമയം ഒരു RF ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ നിങ്ങൾ ഈ ശ്രദ്ധ നൽകണം അതുകൊണ്ടാണ് ഇംപിഡൻസ് മാച്ചിങ് RF രൂപകൽപ്പനയ്ക്കുള്ള ഒരു പ്രധാന ആശയം ആകുന്നത് അതുകൊണ്ട് ആ ഇംപിഡൻസ് മാച്ചിങ് എങ്ങനെ ചെയ്യാമെന്ന് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾക്ക് പ്രത്യേക പ്രഭാഷണങ്ങൾ ഉണ്ടായിരിക്കും പൊതുവെ കുറഞ്ഞ ഫ്രീക്വൻസിയിൽ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ സിഗ്നൽ ഉണ്ടെങ്കിൽ ഇന്റർഫെറൻസ് നിങ്ങളെ എത്രമാത്രം അസ്വസ്ഥമാക്കുന്നു എന്നത് നമ്മൾ ഐ ഡയഗ്രമിലൂടെ കാണും എന്നാൽ മൈക്രോവേവ് മേഖലയിൽ പൊതുവെ ഏതെങ്കിലും ബ്ലോക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രീക്വൻസി റെസ്പോൺസ് അതായത് ഒരു ആംപ്ലിഫയർ ബ്ലോക്ക് അല്ലെങ്കിൽ എസ്കലേറ്റർ ബ്ലോക്ക് അല്ലെങ്കിൽ മിക്സർ ബ്ലോക്ക് മുതലായവ നമ്മൾ എപ്പോഴും കാണാറുണ്ട് കാരണം നിങ്ങൾ ഫ്രീക്വൻസി മാറ്റുകയും നിങ്ങൾ ഉയർന്ന ഫ്രീക്വൻസി എൻഡിൽ ആയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ വ്യത്യസ്ത ഫ്രീക്വൻസിയിലുള്ള അടിസ്ഥാന ബിൽഡിംഗ് ബ്ലോക്കുകൾ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിൽ ഒരു കപ്പാസിറ്റർ പോലെ വ്യത്യസ്തമായി പ്രവർത്തിക്കുമെന്ന് നമ്മൾക്കറിയാം ഇത് ഒരു കപ്പാസിറ്ററായി പ്രവർത്തിക്കാം എന്നാൽ നിങ്ങൾ ഫ്രീക്വൻസി മാറ്റുകയാണെങ്കിൽ അത് ഒരു റെസിസ്റ്ററോ ഇൻഡക്ടറോ ആയി മാറിയേക്കാം ഒരു ഇൻഡക്ടർ മറ്റ് ഫ്രീക്വൻസിയെ പ്രതിരോധിക്കുന്ന കപ്പാസിറ്ററായി മാറുന്നതിന് സമാനമാണ് അതിനാൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഒരു പ്രധാന കാര്യമാണ് നിങ്ങൾ ഫ്രീക്വൻസി മാറ്റുകയാണെങ്കിൽ അതേ കമ്പോണേന്റിൽ നിന്ന് ഒരു പുതിയ സർക്യൂട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം അതിനാൽ ഫ്രീക്വൻസി റെസ്പോൺസ് RF രൂപകൽപ്പനയ്ക്ക് വളരെ ഉപയോഗപ്രദമായ കാര്യമാണ് അപ്പോൾ സാധാരണയായി ഡിജിറ്റൽ സർക്യൂട്ടുകളും മറ്റും ടൈം ഡൊമെയ്നിനെക്കുറിച്ച് സംസാരിക്കുന്നതായി കാണാം അതേസമയം ഫ്രീക്വൻസി ഡൊമെയ്നിനായി RF രൂപകൽപ്പനയിൽ കൂടുതൽ ഏകാഗ്രത നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാണ് അതിന് ഒരു കാരണം നിങ്ങൾ കണ്ടതുപോലെ ആ വളരെ ചെറിയ പൾസ് ഇംപൾസ് സിഗ്നലുകൾ തുടങ്ങിയ സിഗ്നലുകലാണ് മുമ്പ് RF സർക്യൂട്ടുകൾക്ക് അത് കൈമാറാൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ഈ വ്യത്യാസം എന്താണെന്ന് ടൈം ഡൊമെയ്നിലും വരുന്നു ധാരാളം മൈക്രോവേവ് സാങ്കേതികവിദ്യകൾ വരുന്നുണ്ട് എന്നാൽ വേവ് ഫ്രീക്വൻസി ഡൊമെയ്നിൽ നിലവിലുള്ളതെന്തും RF രൂപകൽപ്പനയ്ക്ക് ഉപയോഗപ്രദമാണ് കുറഞ്ഞ ഫ്രീക്വൻസിയിൽ വേവ്ഫോം നോക്കാൻ ഓസിലോസ്കോപ്പ് നോക്കും എന്നാൽ ഉയർന്ന ഫ്രീക്വൻസിയിൽ അതിന്റെ പ്രവർത്തനം മനസിലാക്കാൻ ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്തി കാണേണ്ടതുണ്ട് കൂടാതെ നമുക്ക് ഒരു വേവ് ചിത്രം ഉണ്ടായിരിക്കണം ഒരു വേവ് മുന്നോട്ട് പോകുന്നതാണോ അതോ റിഫ്ലക്ട് ചെയ്ത് പിന്നിലേക്ക് വരുന്നതാണോ എന്നറിയുന്നതിനു വേണ്ടിയാണ് അത് എന്നാൽ ഓസിലോസ്കോപ്പിൽ നിന്ന് അത് ലഭ്യമല്ല അതുകൊണ്ടാണ് RF ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന ഉപകരണം നെറ്റ്വർക്ക് അനലൈസർ ആകുന്നത് ആയതിനാൽ ഈ പ്രഭാഷണ പരമ്പരയുടെയോ ഈ കോഴ്സിന്റെയോ അവസാനം നെറ്റ്വർക്ക് അനലൈസർ നമ്മൾ കാണും അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ബേസ്ബാൻഡ് രൂപകല്പന ചെയ്യുന്ന അടിസ്ഥാന യൂണിറ്റ് അവർ പൊതുവെ വോൾട്ടേജിനെക്കുറിച്ച് സംസാരിക്കുന്നു ആ വോൾട്ടേജ് പരിധി വളരെ ഉയർന്നതാണെങ്കിൽ ഒരു കേവല സ്കെയിലിനു പകരം അത് സാധാരണയായി dB സ്കെയിലിൽ പ്രകടിപ്പിക്കുന്നു അതിനാൽ അവർ സംസാരിക്കുന്നത് ഡിബി വോൾട്ടിനെ കുറിച്ചാണ് എന്നാൽ ആർഎഫ് ഡിസൈനുകളിൽ നമ്മൾ പവർ വോൾട്ടേജിനെക്കുറിച്ച് മാത്രമല്ല ആ വോൾട്ടേജിന്റെയും കറന്റിന്റെയും ക്രോസ് പ്രൊഡക്റ്റിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ ഡിബി സ്കെയിലിന്റെ പവർ യൂണിറ്റ് ഡിബി വാട്ട് ആണ് ഒരു അബ്സൊല്യൂട്ട് സ്കെയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഡിബി വാട്ടിനെക്കുറിച്ചയിരിക്കും സംസാരിക്കുന്നത് അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു എനിക്ക് 10 വാട്ട് പവർ ഉണ്ടെന്ന് കരുതുക 10 വാട്ട് പവർ ന് തത്തുല്യമായിഎനിക്ക് dB വാട്ട് പവർ dB വാട്ട് പവറായി പരിവർത്തനം ചെയ്യാൻ കഴിയും ഇത് ഒരു പവർ ക്വാണ്ടിറ്റി ആയതിനാൽ എനിക്ക് 10 ലോഗ് ബേസ് 10 ലേക്ക് ക്വാണ്ടിറ്റി 10 എടുക്കേണ്ടി വരും ¿ 10 log10 dBW 10 dBW അതിനാൽ ഈ മൾട്ടിപ്ലിയർ പവർ ക്വാണ്ടിറ്റിക്കുള്ളതാണ് ഇത് ലോഗ് 10 dB w ആണ് അതിനാൽ ഇതിലൂടെ നിങ്ങൾക്ക് dB w വാട്ടിലേക്കുള്ള ഏത് പവറും കണക്കാക്കാം കൂടാതെ മറ്റൊരു വാട്ട് ഉണ്ട് ഈ തീമിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് പവർ ഉണ്ട് അതിനെ dBm പവർ എന്ന് വിളിക്കുന്നു മറ്റൊരു പവർ യൂണിറ്റ് dBm ആണ് കാരണം സാധാരണയായി RF ഫ്രീക്വൻസിയിൽ പ്രത്യേകിച്ച് നമ്മളുടെ ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ ലബോറട്ടറികളിൽ നമ്മൾ ചെറിയ അളവിലുള്ള പവർ കൈകാര്യം ചെയ്യുന്നു അതിനാൽ dB m എന്നാൽ നിങ്ങൾ ഈ വാട്ടിനെ മില്ലി വാട്ടാക്കി മാറ്റുന്നു എന്നാണ് അതിനാൽ അതേ 10 വാട്ട് വൈദ്യുതി മില്ലി വാട്ടിൽ ആയിരിക്കും ഇപ്പോൾ ഞാൻ അത് ഇവിടെ ചേർക്കുകയാണെങ്കിൽ അത് എത്രയായിരിക്കും ¿ 10 ലോഗ്10 ¿ 40 dBm 10000 മില്ലി വാട്ട് കൊണ്ട് ഗുണിച്ചു അതിനാൽ അത് 4 ആയിരിക്കും അതിനാൽ എനിക്ക് 40 dB m പവർ ഉണ്ടാകും എന്നാൽ ഇവിടെ എനിക്ക് ആ 10 dB വാട്ട് പവർ ഉണ്ടായിരുന്നു അതിനാൽ RF ഫ്രീക്വൻസിയിൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന പവർ യൂണിറ്റുകൾ ഇതാണ് ഇപ്പോൾ മറ്റൊരു കാര്യം നിങ്ങൾ കാണുന്നു പവർ ദൌർലഭ്യത്തിന്റെ അതേ കാരണം തന്നെ അതിനാൽ RF ആളുകളിൽ RF എന്നത് ഉപകരണങ്ങളാണ് ഇത് സാധാരണയായി 50 ohm പവർ 50 ohm ന്റെ 50 ohm ഇംപെഡൻസിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അതിനാൽ ഇത് ഒരു ചെറിയ ഇംപെഡൻസാണ് അതേസമയം ഓസിലോസ്കോപ്പ് പ്രോബുകൾ കിലോ ഓം അല്ലെങ്കിൽ മെഗാ ഓം ഇംപെഡൻസാണ് നിങ്ങളുടെ ഓസിലോസ്കോപ്പുകളിൽ അവിടെ വരുന്ന പ്രോബ്സ് നിങ്ങൾക്ക് അത് 1 ഓം അല്ലെങ്കിൽ 10 ഓം പ്രോബുകൾ എന്നിങ്ങനെയായി മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിനാൽ ഈ വ്യത്യാസത്തിന്റെ കാരണം ഈ സ്ലൈഡിൽ കാണിക്കുന്നത് പോലെയാണ് പവർ നൽകിയിരിക്കുന്നതെങ്കിൽ പവർ എന്നത് PV²Z ആണ് അതിനാൽ ഒരേ വോൾട്ടേജിന് നിങ്ങൾ ചെറിയ z ചെറിയ ഇംപിഡൻസ് നൽകിയാൽ നിങ്ങൾക്ക് കൂടുതൽ പവർ ലഭിക്കുന്നു അതിനാലാണ് RF ആളുകൾ 50 ഓം ഉപയോഗിക്കുന്നത് അതേസമയം ഓസിലോസ്കോപ്പ് ആളുകൾക്ക് ബേസ്ബാൻഡിൽ താൽപ്പര്യമുണ്ട് ആളുകൾക്ക് വോൾട്ടേജിനെക്കുറിച്ച് താൽപ്പര്യമുണ്ട് അതിനാൽ വോൾട്ടേജ് നൽകിയിരിക്കുന്നു V √ pz അതിനാൽ കൂടുതൽ ഇംപിഡൻസ് അർത്ഥമാക്കുന്നത് അതേ പവർ നൽകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വോൾട്ടേജ് ലഭിക്കുന്നത് എന്നാണ് അതിനാലാണ് RF അല്ലാത്ത ആളുകൾ അവർ ഉയർന്ന ഇംപിഡൻസ് ഇഷ്ടപ്പെടുന്നത് RF ആളുകൾ കുറഞ്ഞ ഇംപിഡൻസ് ഇഷ്ടപ്പെടുന്നു സാധാരണഗതിയിൽ RF ന് ഉയർന്ന കറന്റ് ഡ്രെയിനുണ്ട് സാധാരണയായ മില്ലി ആംപിയറിന്റെ ക്രമം എന്നാൽ ഒരു സാധാരണ ഡിജിറ്റൽ ബ്ലോക്കിൽ പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ സാങ്കേതികവിദ്യയിൽ മൈക്രോ ആമ്പിയർ അല്ലെങ്കിൽ അതിലും ചെറുതാണ് ഉപയോഗിക്കുന്നത് അതിനാൽ കറന്റ്ന്റെ കാര്യം നോക്കുമ്പോൾ RF ആളുകൾക്ക് ഇംപിഡൻസ് ചെറുതായ അതേ കാരണത്താൽ അതിനെ അപേക്ഷിച്ച് അവർക്ക് കൂടുതൽ പവർ ഉണ്ട് RF ആളുകൾക്ക് അതായത് RF ഡിസൈനർമാരുടെ കാര്യത്തിൽ അതുകൊണ്ട് അതേ പവറിനുള്ള കറന്റ് കൂടുതലായിരിക്കും സാധാരണയായി ആന്റിനയ്ക്ക് മുമ്പോ ശേഷമോ സിസ്റ്റത്തെ RF ഫ്രണ്ട്എൻഡ് എന്ന് വിളിക്കുന്നു അതിനാൽ അവിടെ ഈ കോഴ്സിൽ നിന്ന് പഠിക്കുന്ന പ്രിൻസിപ്പ്ൾസിൽ നിന്ന് ചില പ്രിൻസിപ്പ്ൾസ് പ്രയോഗിക്കേണ്ടതുണ്ട്അതേസമയം ഈ ആന്റിനയിൽ നിന്ന് സാധാരണയായി ഒരു നോൺ RF സിസ്റ്റത്തിൽ കാണുന്ന വലതുവശം നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ IF ആംപ്ലിഫയറിന് ശേഷം ഇത് ഒടുവിൽ ഒരു ഡെമോഡുലേറ്റർ തരത്തിലുള്ള കാര്യത്തിലേക്ക് വരുന്നു അതിനാൽ ഡെമോഡുലേറ്ററിന് ശേഷം നിങ്ങൾക്ക് ഒരു ഫോർവേഡ് എറർ കറക്ടിങ് ഡീകോഡർ ഉണ്ട് തുടർന്ന് ഒരു ബേസ് ബാൻഡ് പ്രോസസർ ഉണ്ട് തുടർന്ന് ബോർഡ് കൺട്രോളറിൽ ഫോർവേഡ് എറർ കറക്റ്റിംഗ് കൺട്രോളർ മോഡുലേറ്റർ ഉണ്ട് അതിനാൽ ഇവയെല്ലാം നിങ്ങൾ മറ്റ് കോഴ്സുകളിൽ പഠിച്ചതാണ് ഇവ അടിസ്ഥാനപരമായി ഡിമോഡുലേറ്ററുകൾ എറർ കണ്ട്രോൾ കോഡിംഗ് എറർ ഡീകോഡിംഗ് ബേസ് ബാൻഡ് പ്രോസസ്സിംഗ് പോലുള്ള അടിസ്ഥാന ബാൻഡ് പ്രോസസ്സിംഗ് ബ്ലോക്കുകളാണ് തുടർന്ന് നിങ്ങളുടെ വിവിധ മോഡുലേഷൻ കാര്യങ്ങൾ സാധാരണയായി RF ഇതര കാര്യങ്ങൾ അല്ലെങ്കിൽ അനലോഗ് അല്ലെങ്കിൽ ബേസ്ബാൻഡ് കാര്യങ്ങൾ എന്നിവയാണ് അതിനാൽ അവർ ആന്റിനയിൽ നിന്ന് അൽപ്പം അകലെയാണ് അതിനാൽ ബേസ്മെൻറ് തിരിച്ച് ഏത് കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിലെയും ഏതെങ്കിലും റഡാർ സിസ്റ്റത്തിൽ നിങ്ങൾ നോക്കിയാൽ RF ശൂന്യമായ സ്ഥലത്തിലേക്കോ പുറം ലോകത്തിലേക്കോ വൈദ്യുതി പമ്പ് ചെയ്യുമ്പോൾ അവ മുന്നിലാണ് ബാക്കെൻഡ് അത് പൊതുവെ RF ഉം അല്ലാത്തതുമായ കാര്യങ്ങൾ ആണ് അതുകൊണ്ടാണ് RF ആളുകൾ പവർ കോൺഷ്യസ് ആണെന്ന് ഞാൻ പറയുന്നത് എന്നാൽ സ്റ്റാറ്റസ് എന്നത്കൊണ്ട് വോൾട്ടേജ് എന്നാണ് അർത്ഥമാക്കുന്നത് കാരണം ബേസ്ബാൻഡ് കാര്യങ്ങളിലെ മിക്ക തീരുമാനങ്ങളും ഒരു പ്രത്യേക വോൾട്ടേജ് പരിധിക്ക് മുകളിലാണോ അതോ 5 വോൾട്ടിന് താഴെയാണോ അല്ലെങ്കിൽ അത് 5 വോൾട്ടിൽ കൂടുതലാണോ 5 വോൾട്ടിൽ കുറവാണോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് എടുക്കുന്നത് 5 വോൾട്ടിൽ കൂടുതൽ TTL ലോജിക് അല്ലെങ്കിൽ അല്ല അതിനാൽ അവിടെ അത് സ്റ്റാറ്റസ് കോൺഷ്യസ് കാര്യമാണെങ്കിൽ RF ൽ അത് പവർ കോൺഷ്യസ് കാര്യമാണ് പൊതുവെ മോഡുലേറ്ററുകൾ ഈ ബേസ് ബാൻഡിന്റെയും RF ബ്ലോക്കുകളുടെയും കോൺഫ്ലുൻസ് ആണ് അതിനാൽ ഒരു റിസീവറിൽ സമാനമായി ഡിമോഡുലേറ്റർ സ്റ്റാറ്റസ് കോൺഷ്യസായ ബേസ് ബാൻഡിന്റെയും പവർ കോൺഷ്യസ് RFന്റെയും ഈ രണ്ട് ബ്ലോക്കുകളുടെയും കോൺഫ്ലുൻസ് എന്ന് വിളിക്കുന്നു കൂടാതെ അവർക്ക് ഇപ്പോൾ വ്യത്യസ്തമായ ജോലികളുണ്ട് പവർ ട്രാൻസ്പോർറ്റേഷൻ RF ന്റെ അടിസ്ഥാന ദൌത്യമാണെന്ന് എനിക്ക് സംഗ്രഹിക്കാം വോൾട്ടേജ് പരിവർത്തനമാണ് അടിസ്ഥാന ബാൻഡ് സിസ്റ്റങ്ങളുടെ അടിസ്ഥാന ചുമതല RF രൂപകൽപ്പനയുടെ വെല്ലുവിളികൾ എന്തൊക്കെയാണ് വിവിധ പാരാമീറ്ററുകൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് പാരാമീറ്ററുകളിലൊന്ന് പവർ ഗെയിൻ ആണ് വോൾട്ടേജ് നേട്ടമല്ല അടുത്തത് എത്രമാത്രം നോയ്സ് ഉണ്ട് എന്നതാണ് കാരണം പുറം ലോകത്തേക്ക് തുറക്കുന്നതിനാൽ നിങ്ങൾ ധാരാളം ബാഹ്യ ശബ്ദങ്ങൾ നൽകുകയോ എടുക്കുകയോ ചെയ്യുന്നു ഒരു മിന്നൽ സംഭവിക്കുന്നുവെന്ന് കരുതുക ഏതെങ്കിലും നക്ഷത്രം നിങ്ങളുടെ ആന്റിന എടുക്കുന്ന റേഡിയോ നക്ഷത്രത്തെ റേഡിറ്റിങ് ചെയുന്നുണ്ട് എന്ന് കരുതുക ഇവിടെയെല്ലാം നിങ്ങൾക്ക് ശബ്ദം ലഭിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നോയ്സ് പവർ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അത്കൊണ്ടാണ് നമ്മൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ മുതലായവയെക്കുറിച്ച് സംസാരിക്കുന്നത് തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ ഉപകരണങ്ങളിൽ ലീനിയറിറ്റി നിലനിർത്തുന്നുണ്ടോ എന്ന നോക്കുന്നു കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക ഫ്രീക്വൻസി ലീനിയറിറ്റി നിലനിർത്തുന്നില്ലെങ്കിൽ ആ നോൺ ലീനിയറിറ്റി കാരണം നിങ്ങൾ മറ്റ് ചില ഫ്രീക്വൻസികൾ സൃഷ്ടിക്കും അത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും കാരണം നിങ്ങൾ ഫ്രീക്വൻസി മാറ്റുകയാണെങ്കിൽ ഒരു RF സർക്യൂട്ടിൽ ഒരു വഴിതിരിവായി അത് മാറുന്നത് നമ്മൾ കണ്ടു അതിനാൽ RF രൂപകൽപ്പനയിലെ മൂന്ന് പ്രധാന പാരാമീറ്ററുകൾ ഇവയാണ് എന്നാൽ നിങ്ങൾ ഒരു ആംപ്ലിഫയർ പോലെയുള്ള ഒരു ആക്റ്റീവ് സർക്യൂട്ട് രൂപകൽപന ചെയ്യുമ്പോഴും അവ ഉണ്ട് ഈ RF സിഗ്നൽ പ്രവർത്തിപ്പിക്കുന്നതിന് നിങ്ങൾ അതിന്റെ സ്റ്റബിലിറ്റി പരിഗണിക്കേണ്ടതുണ്ട് നിങ്ങൾ എത്ര ഡിസി പവർ സപ്ലൈ ഉപയോഗിച്ചു അതിന്റെ ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ് കറന്റ് ഡ്രൈൻ എന്താണെന്നും കണ്ടെത്തേണ്ടതുണ്ട് RF ൽ എല്ലായ്പ്പോഴും ബാധകമല്ലാത്ത ചില പ്രത്യേക പാരാമീറ്ററുകൾ ഉണ്ട് എന്നാൽ ചില ക്രിട്ടിക്കൽ ബ്ലോക്കുകളിൽ നിങ്ങൾക്ക് ഒരു വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ ഉണ്ടെങ്കിൽ ലോഡിന്റെ മാറ്റം കാരണം ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി മാറുന്നതുപോലെ അവ വളരെ പ്രധാനമാണ് അതിനാൽ ഓസിലേറ്ററുകൾക്ക് VCO യിൽ ലോഡ് വലിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ് അതുപോലെ VCO അല്ലെങ്കിൽ ഓസിലേറ്ററുകളിൽ ഒരു ഘട്ടം ശബ്ദം സൃഷ്ടിക്കപ്പെടുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ് കാരണം നിങ്ങൾ ശരിയായി ചിത്രീകരിക്കുന്നില്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ മറ്റ് ഭാഗങ്ങളിൽ ധാരാളം പ്രവർത്തന ഡിസബിലിറ്റീസ് വരുന്നു ഒരു പവർ ആംപ്ലിഫയറിന് പവർ അഡ്ഡ്ഡ് എഫിഷ്യൻസി എത്രയാണ് ട്രാൻസ്മിറ്റർന് മുമ്പ് ഒരു പവർ ആംപ്ലിഫയർ ഉണ്ട് അത് റേഡിയേറ്റ് ചെയുന്നു കമ്മ്യൂണിക്കേഷനിൽ പവർ ആംപ്ലിഫയറിന്റെ എഫിഷൻസി വളരെ പ്രധാനമാണ് അപ്പോൾ ഒരു റിസീവറിന്റെ സെൻസിറ്റിവിറ്റി എന്നാൽ ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് ഒരു റേഡിയോ സ്റ്റാർ അയയ്ക്കുന്നതിൽ നിങ്ങൾക്ക് എത്ര ചെറിയ സിഗ്നൽ മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് അത് കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് ഒരു സെൻസിറ്റീവ് റിസീവർ ആവശ്യമാണ് അതിനാൽ RF റിസീവറുകൾ റിസീവറിന്റെ സെൻസിറ്റീവിറ്റി എന്താണെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ശ്രമിക്കുന്ന പവർ പമ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ സിഗ്നൽ അയയ്ക്കാൻ ശ്രമിക്കുന്നു ട്രാൻസ്മിറ്ററിന്റെ മറ്റൊരു ക്യാരക്ടർസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിറ്ററിന്റെ പാരാമീറ്റർ നിങ്ങൾ എത്രത്തോളം ഔട്ട്പുട്ട് പവർ ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് അതിനാൽ അടിസ്ഥാന വെല്ലുവിളികൾ എന്താണെന്നതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു RF രൂപകൽപ്പനയിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന ചില ടൂളുകൾ നമ്മളുടെ അടുത്ത പ്രഭാഷണങ്ങളിൽ കാണാം